മെക്കാനോബയോളജി ഓഫ് ഡിസീസസ് അതിറോസ്ക്ളീറോസിസ് ഹൈപ്പർടെൻഷൻ നമസ്കാരം 'ഇൻട്രൊഡക്ഷൻ ടു മെക്കാനോബയോളജി' എന്ന കോഴ്സിലെ ഇന്നത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ഏതാനും ലെക്ച്ചറുകളിലായി വിവിധയിനം രോഗാവസ്ഥകളുടെ മെക്കാനോബയോളജിയെ കുറിച്ചും അതിനോടനുബന്ധിച്ച് ക്യാൻസറിനെ പറ്റിയും നാം ചർച്ച ചെയ്യുകയുണ്ടായി ക്യാൻസറിന്റെ പരിണിതഫലമായി ഉടലെടുക്കുന്ന ഫൈബ്രോസിസിനോടുള്ള പ്രതികരണാർത്ഥം ECM ന്റെ ദൃഢീകരണത്തിലേക്ക് നയിക്കുന്ന കൊളാജെൻ 1 ന്റെ വർദ്ധിച്ച നിക്ഷേപം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നതാണ് വസ്തുത മേല്പറഞ്ഞ കൊളാജെൻ 1 ലൈസിൽ ഓക്സിഡേസ് അഥവാ LOX എന്ന എൻസൈമുമായി കൂടിച്ചേർന്ന് ഇവിടെ ക്രോസ്സ് ലിങ്കിങ് കാഴ്ചവെക്കുന്നുണ്ട് മേൽ സൂചിപ്പിച്ച രണ്ട് സാഹചര്യങ്ങളും ECM ന്റെ ദൃഢീകരണത്തിനും പുനഃസംഘടനയ്ക്കും വഴിയൊരുക്കുന്ന ഘടകങ്ങളായാണ് പ്രവർത്തനത്തിലേർപ്പെടുന്നത് പ്രസ്തുത സന്ദർഭത്തിൽ ECM ഫൈബറുകൾ പരസ്പരം ഇഴചേർന്ന് നിയതമായ ദിശയിൽ അണിനിരത്തപ്പെട്ട രീതിയിലുള്ള ബണ്ടിലുകൾ രൂപപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് വസ്തുത സെല്ലിൽ പ്രസിദ്ധീകരിച്ച പ്രസ്തുത പ്രബന്ധം അടിസ്ഥാനപ്പെടുത്തി ECM ൽ ദൃശ്യമാകുന്ന ക്രോസ്സ് ലിങ്കിങ് പ്രക്രിയയുടെ അനന്തമായ ഫലങ്ങളെ കുറിച്ച് നാം നേരത്തെ തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി മേല്പറഞ്ഞ പ്രക്രിയ ട്യൂമറിന്റെ വളർച്ച പുരോഗതിയെ സ്വാധീനിക്കാൻ പ്രാപ്തമാണ് എന്ന സൂചനയാണ് നമുക്ക് ഇതിലൂടെ ലഭ്യമായത് സജ്ജീവമായ ഇന്റെഗ്രിൻ സിഗ്നലിങ് സംവിധാനം ട്യൂമറിന്റെ അഭിവൃദ്ധിക്ക് നിദാനമാകുന്നുണ്ട് ഫൈബ്രോസിസിന്റെ അനന്തരഫലമായി ഉടലെടുക്കുന്ന അതിറോസ്ക്ളീറോസിസ് എന്ന മറ്റൊരിനം രോഗാവസ്ഥയെ കുറിച്ച് നമുക്ക് ഇന്ന് വിശദമായി ചർച്ച ചെയ്യാം എന്താണ് അതിറോസ്ക്ളീറോസിസ് ഓക്സിജൻ സമ്പുഷ്ടമായ രക്തം വിവിധ അവയവങ്ങളിലേക്കും മറ്റ് ശരീര ഭാഗങ്ങളിലേക്കും എത്തിക്കുവാനായി മനുഷ്യശരീരത്തിൽ ഒട്ടനേകം രക്തധമനികൾ നിലവിലുണ്ടെന്നത് നമുക്ക് അറിവുള്ള കാര്യമാണ് പ്രസ്തുത രക്തധമനികളുടെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അവയ്ക്ക് ഈ കാണുന്നത് പോലെ വളരെ മനോഹരമായ ഒരു ഘടനയാണുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കാണുന്ന ചാനലുകളിലൂടെയാണ് രക്തം പ്രവഹിക്കുന്നത് പ്രസ്തുത ക്രോസ്സ് സെക്ഷൻ വൃത്താകൃതിയിലാണ് നിലകൊള്ളുന്നത് എന്നാൽ വശങ്ങളിൽ നിന്നും വീക്ഷിക്കുകയാണെങ്കിൽ ഈ കാണുന്ന രീതിയിലാണ് രക്തം ഇവയ്ക്കുള്ളിലൂടെ ഒഴുകുന്നത് എന്നാൽ അതിറോസ്ക്ളീറോസിസ് എന്ന രോഗാവസ്ഥയിൽ പച്ച നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ മേഖലയിൽ കാണുന്നത് പോലെ ഒരു അതിറോസ്ക്ളീറോസിസ് പ്ലേക്ക് ദൃശ്യമാണ് എന്നതാണ് വസ്തുത പ്രസ്തുത പ്ലേക്ക് രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തി നിലകൊള്ളുന്ന ഒരു പാളിയാണ് കൊഴുപ്പ് കൊളസ്ട്രോൾ കാൽസ്യം എന്നിങ്ങനെ ഒട്ടനവധി ധാതുക്കൾ കൊണ്ട് നിർമ്മിതമായ പ്ലേക്ക് അക്ഷരാർത്ഥത്തിൽ രക്തധമനികളിലൂടെ ഒഴുകുന്ന രക്തത്തിന്റെ പ്രവാഹത്തെ നിയന്ത്രിക്കുകയും അതിന് വിലങ്ങ് തടിയായി തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നു രക്തപ്രവാഹത്തിന് തടസ്സം നിൽക്കുന്നതിനാൽ കാലക്രമേണ ഇത് ഹൃദയാഘാതത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു വൈദ്യപരിശോധനകൾ നടത്തുമ്പോൾ ചിലപ്പോൾ ധമനികളിലോ സിരകളിലോ നിങ്ങൾക്ക് 98 ശതമാനം ബ്ലോക്കേജുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നത് കേട്ടിട്ടില്ലേ കുറഞ്ഞ സാന്ദ്രതയുള്ള ലിപ്പോപ്രോട്ടീൻ ട്രൈഗ്ലിസറൈഡുകൾ എന്നിങ്ങനെ രക്തത്തിൽ ചംക്രമണം ചെയ്യുന്ന ഏതാനും ചില ഘടകങ്ങളാണ് അതിറോസ്ക്ളീറോസിസ് എന്ന രോഗാവസ്ഥക്ക് നിദാനമാകുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ ഫ്ലോ പാറ്റേണിൽ അഥവാ ധമനികളിലൂടെ രക്തം ഒഴുകുന്ന രീതിയിൽ ചില പ്രകടമായ വ്യതിയാനങ്ങൾ ദൃശ്യമാണ് എന്നതാണ് വസ്തുത മാത്രമല്ല ധമനികളിൽ പ്രാദേശികമായി ഒട്ടനവധി ക്ഷതങ്ങളുടെ സാന്നിധ്യവും ഗവേഷകർ നിരീക്ഷിക്കുകയുണ്ടായി രക്തധമനികളുടെ ശാഖകളിലും കർവേച്ചറുകളിലുമായാണ് പ്രസ്തുത ക്ഷതങ്ങൾ വികസിക്കുന്നത് എന്തായിരിക്കാം ഇതിന്റെ കാരണം ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ സഹായത്താൽ ഇത്തരം ഇടങ്ങളിൽ അനുഭവപ്പെടുന്ന ഷിയർ സ്ട്രെസ്സ് അസ്വസ്ഥമാകുന്നുണ്ട് എന്നവർ നിരീക്ഷിക്കുകയുണ്ടായി ചുരുക്കിപ്പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്സിന്റെ മൂല്യം കുറയുകയോ അസ്വസ്ഥമാകുകയോ ചെയ്യുന്ന ഇടങ്ങളിലാണ് പ്രധാനമായും ക്ഷതങ്ങൾ രൂപപ്പെടുന്നത് എന്ന സൂചനയാണ് നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത് പ്രസ്തുത വിഷയത്തിൽ ഫ്ലോ പ്രൊഫൈൽ എന്ന ഘടകം നിയതമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് ചില ഗവേഷകർ നിർദ്ദേശിക്കുകയുണ്ടായി എൻഡോത്തീലിയൽ സെൽ ഡിസ്ഫങ്ഷൻ ദൃശ്യമാകുന്ന ആർട്ടീരിയൽ ധമനികളിലാണ് സാധാരണഗതിയിൽ അതിറോസ്ക്ളീറോസിസ് എന്ന രോഗാവസ്ഥ കാണപ്പെടുന്നത് ഇവയെല്ലാം കുറഞ്ഞ ഓസ്സിലേറ്ററി അല്ലെങ്കിൽ പ്രക്ഷുബ്ധമായ ഷിയർ സ്ട്രെസ്സ് പ്രകടമാകുന്ന മേഖലകളാണ് ഇതിനെ ഹ്രസ്വമായി നമുക്കൊന്ന് വിശകലനം ചെയ്യാം ഇതിനായി ലളിത മാതൃകയിലുള്ള ഒരു കുഴൽ നമുക്കെടുക്കാം പ്രസ്തുത ഉപകരണം നിശ്ചിത ദിശയിൽ രക്തം പ്രവഹിക്കുന്ന ഒരു രക്തധമനിക്ക് അനുരൂപമായ ആകൃതിയിലാണ് കാണപ്പെടുന്നത് ഏകദേശം ഇതിന്റെ മധ്യഭാഗത്തായി ഒരു ഫ്ലൂയിഡ് എലെമെൻറ് കണക്കിലെടുക്കുകയാണെങ്കിൽ അവയ്ക്ക് നിയതമായ ലൈൻ ഓഫ് സിമെട്രി ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രസ്തുത ഫ്ലൂയിഡ് എലെമെന്റിൽ സ്വാധീനം ചെലുത്തുന്ന ഫോഴ്സുകൾ എന്തൊക്കെയായിരിക്കും ഈ കാണുന്ന നീളം δx എന്നും ഇത് റേഡിയസാണെന്നും കരുതുക കുഴലിന്റെ ആകൃതി ആയതിനാൽ തന്നെ ഇവ ആക്സിയലി സിമെട്രിക് ആയിരിക്കും എന്നതാണ് വസ്തുത ഇതാണ് റേഡിയസ് r ഇതിന്റെ ചുവരുകളിൽ അനുഭവപ്പെടുന്ന മർദ്ദത്തിന്റെ നിരക്ക് p ആണ് δx ന്റെ മൂല്യം വളരെ ചെറുതായതിനാൽ pδp എന്ന തോതിൽ ഞാനിവിടെ സമ്മർദ്ദം ചെലുത്തുകയാണ് ഇതിനോടനുബന്ധിച്ച് നമുക്ക് ലഭ്യമാകുന്ന ഷിയർ ഫോഴ്സിനെ നാം δx എന്നാണ് പ്രതിപാദിക്കുന്നത് ഷിയർ സ്ട്രെസ്സ് ഒരു ടാൻജെൻഷ്യൽ ഫോഴ്സാണെന്ന് മുൻപത്തെ ചർച്ചകളിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇത്തരത്തിൽ പ്രബലമായ ഫോഴ്സുകൾ നിലവിലുള്ളതിനാൽ തന്നെ നമ്മുടെ ഫോഴ്സിന്റെ ബാലൻസ് സമവാക്യം ഏതാണ്ട് ഇതുപോലിരിക്കും അതായത് p

ഇവിടെ 2πr എന്നത് വൃത്തപരിധിയുടെ നീളവും δx എന്നത് ടോട്ടൽ ഷിയർ സ്ട്രെസ്സുമാണ് ഇവയുടെയെല്ലാം ആകെതുക എന്നത് pδp×πr2 നോട് തുല്യമായിരിക്കും എന്നതാണ് വസ്തുത പ്രസ്തുത സമവാക്യത്തിൽ നിന്നും τ r2 δpδx എന്ന ലളിതമായ മറ്റൊരു സമവാക്യം നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കും ഇവിടെ τ എന്നത് ഷിയർ സ്ട്രെസ്സാണ് ചുരുക്കിപ്പറഞ്ഞാൽ τmax r2 δpδx എന്ന സമവാക്യം ഈ കാണുന്ന ചുവരുകളിൽ അനുഭവപ്പെടുന്ന ഷിയർ ഫോഴ്സിന്റെ പരമാവധി നിരക്കിനെയാണ് സൂചിപ്പിക്കുന്നത് ഇതിൽ നിന്നും ഫ്ലോയുടെ നിരക്ക് നമുക്ക് കണക്കാക്കാൻ സാധിക്കും എന്നതാണ് വസ്തുത ന്യൂട്ടന്റെ വിസ്കോസിറ്റി നിയമം പ്രകാരം τ µdudr ആണ് പ്രസ്തുത സമവാക്യത്തെ നമുക്ക് µdudr r2δpδx എന്ന് എഴുതാവുന്നതാണ് ശേഷം ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ µu എന്നത് r ന് സമമാണെന്ന് നമുക്ക് ലഭ്യമാകും ഇതിൽ നിന്നും µ നീക്കം ചെയ്ത് 12µδpδxr22 നെ ചുവരുകളിൽ അനുഭവപ്പെടുന്ന പൂജ്ജ്യം നിരക്കിൽ നിന്നും കുഴലിന്റെ മധ്യഭാഗത്തായി പ്രകടമാകുന്ന പരമാവധി നിരക്ക് വരെ കണക്കാക്കി ഇൻഗ്രേറ്റ് ചെയ്യുകയാണ് നമുക്ക് മുൻപിലുള്ള അടുത്ത ദൌത്യം പ്രസ്തുത സമവാക്യത്തിനെ R തൊട്ട് r നാൽ പൂജ്യം മുതൽ u വരെ ഇൻഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ 14µδpδx R2 r2 എന്ന ഉത്തരമാണ് നമുക്ക് ലഭ്യമാകുക പിന്നീട് 14µδpδx R2 - r2 എന്ന സമവാക്യത്തിൽ നിന്നും R2 എന്ന പൊതുവായ ഘടകത്തെ നാം ഇതിൽ നിന്നും വേർതിരിക്കുകയാണ് r ന്റെ മൂല്യം പൂജ്യത്തോടടുക്കുമ്പോൾ umax നമുക്ക് ലഭ്യമാകുന്നു ഇതാണ് നമ്മുടെ വെലോസിറ്റി പ്രൊഫൈൽ R24µδpδx 1 rR2 എന്നതാണ് ഇതിന്റെ സമവാക്യം ലളിതമായി പറയുകയാണെങ്കിൽ δpδx ന്റെ മൂല്യം നെഗറ്റിവ് ആയതിനാലാണ് പ്രസ്തുത സമവാക്യത്തിൽ മൈനസ് സൈൻ കാണുന്നത് നെഗറ്റിവ് ഗുണിതം നെഗറ്റിവ് ചെയ്യുമ്പോൾ തുകയുടെ മൂല്യം പോസിറ്റിവാകുമെന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ് മേല്പറഞ്ഞ വെലോസിറ്റി പ്രൊഫൈൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരമൊരു രീതിയിലാണ് ഇത് ലഭ്യമാകുക ഇതാണ് നമ്മുടെ പൈപ്പ് ഈ കാണുന്ന പ്രസ്തുത ദിശയിലാണ് ഒഴുക്ക് അനുഭവപ്പെടുന്നത് ഇവിടെ വെലോസിറ്റി പരമാവധി നിരക്കിലാണ് പ്രകടമാകുന്നത് പ്രസ്തുത വെലോസിറ്റി പ്രൊഫൈൽ പാരാബോളിക് പ്രകൃതമുള്ള ഒന്നാണ് ഇതോടൊപ്പം YAP TAZ എന്നിങ്ങനെ രണ്ട് സുപ്രധാന ട്രാൻസ്ക്രിപ്ഷനൽ ഫാക്ടേഴ്സ് കാണപ്പെടുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ അതിറോസ്ക്ളീറോസിസ് മൂലം ദൃശ്യമാകുന്ന ക്ഷതങ്ങളിൽ ഇവ രണ്ടും ധാരാളം അളവിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് വസ്തുത മേല്പറഞ്ഞ YAPTAZ എന്നീ ഘടകങ്ങളും മെക്കാനോ സെൻസിറ്റിവിറ്റിയും തമ്മിൽ എന്തെങ്കിലും പരസ്പരബന്ധമുണ്ടോയെന്ന കാര്യം പ്രസ്തുത സന്ദർഭത്തിൽ തീർത്തും അജ്ഞാതമാണ് എൻഡോതീലിയൽ കോശങ്ങളിൽ ദൃശ്യമാകുന്ന YAPTAZ പാത്ത് വേയുടെ ഫ്ലോ ഡിപെൻഡന്റ് മോഡുലേഷൻ വിവരിക്കുന്ന ഒരു പ്രബന്ധം ഞാൻ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് പ്രസ്തുത പഠനത്തിന്റെ ഭാഗമായി ഒരു പാരലൽ പ്ലേറ്റ് ഫ്ലോ ചേമ്പർ അവർ ഉപയോഗപ്പെടുത്തുകയുണ്ടായി അക്ഷരാർത്ഥത്തിൽ ഒരു പൈപ്പിന് അനുരൂപമായ ഘടനയുള്ള ഉപകരണമാണ് മേല്പറഞ്ഞ പാരലൽ പ്ലേറ്റ് ഫ്ലോ ചേമ്പർ ഇതിന്റെ അടിത്തട്ടിലായി എൻഡോതീലിയൽ കോശങ്ങൾ ഒരു മോണോ ലെയർ മാതൃകയിൽ വളരുന്നുണ്ട് ഇത് കൂടാതെ നിയതമായ ഫ്ലോയും നമുക്ക് ഇവിടെ ദൃശ്യമാണ് ഇതിന് ഒരു നിശ്ചിത ഉയരമുണ്ട് ചുരുക്കിപ്പറഞ്ഞാൽ പ്രസ്തുത കോശങ്ങൾക്കുമേൽ നിയതമായ ഒരു ഫ്ലോ പ്രൊഫൈൽ ചുമത്തപ്പെടുന്നുണ്ട് ആയതിനാൽ കോശങ്ങളെല്ലാം തന്നെ വ്യക്തമായ ഷിയർ സ്ട്രെസ്സിന് വിധേയമാണ് എന്നതാണ് വസ്തുത ഇത് ഉപയോഗപ്പെടുത്തി ഫ്ലോയുടെ ഗതി നമുക്ക് നിർണ്ണയിക്കാനാകും എന്നൊരു പ്രത്യേകതയുണ്ട് ലാമിനാർ ഫ്ലോയിൽ ഫ്ലോ ഉണ്ടാകുമ്പോൾ കണങ്ങളുടെ മിശ്രണം നമുക്ക് ദൃശ്യമാകാറില്ല ഈ കാണുന്ന പൈപ്പിൽ ഒരു നിശ്ചിത ഘട്ടത്തിൽ അല്പം ഡൈ ചേർക്കുകയാണെങ്കിൽ അവ വിപരീത ദിശയിലേക്ക് വ്യാപിക്കാതെ നിയതമായ ദിശയിൽ ചലനം തുടരുന്നതായി നമുക്ക് വ്യക്തമാകും എന്നതാണ് വസ്തുത ഇതിനെയാണ് നാം ലാമിനാർ ഫ്ലോ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതിൽ നിന്നും വിഭിന്നമായി കാണപ്പെടുന്ന മറ്റൊന്നാണ് ടർബ്യുലന്റ് ഫ്ലോ ഇവിടെ ഈ കാണുന്ന റേഡിയൽ ദൂരത്തിലുടനീളം കണങ്ങളുടെ മിശ്രണം നമുക്ക് ദൃശ്യമാകും എന്നതാണ് ഇതിന്റെ സവിശേഷത പ്രസ്തുത പരീക്ഷണത്തിന്റെ ഭാഗമായി HUVEC അഥവാ ഹ്യൂമൻ അമ്പിലിക്കൽ വാസ്ക്ക്യുലർ എൻഡോതീലിയൽ കോശങ്ങൾ ഗവേഷകർ ലാമിനാർ അഥവാ ഓസ്സിലേറ്ററി ഫ്ലോയ്ക്ക് വിധേയമാക്കുകയുണ്ടായി ഈ കാണുന്നത് അവയിൽ അനുഭവപ്പെടുന്ന ലാമിനാർ ഷിയർ സ്ട്രെസ്സ് അഥവാ ഓസ്സിലേറ്ററി ഷിയർ സ്ട്രെസ്സാണ് പരീക്ഷണാർത്ഥം ലാമിനാർ സാഹചര്യങ്ങളിൽ പ്രകടമാകുന്ന YAP TAZ എന്നിവയുടെ പ്രൊഫൈൽ അവർ പരിശോധിക്കുകയുണ്ടായി പ്രസ്തുത ട്രാൻസ്ക്രിപ്ഷണൽ ഫാക്ടറുകൾ പ്രത്യേകമായ ഒരു സവിശേഷ സ്വഭാവമാണ് കൈക്കൊണ്ടത് എന്നവർ നിരീക്ഷിക്കുകയുണ്ടായി ഫോസ്ഫോറിലേറ്റഡായ നിഷ്ക്രിയാവസ്ഥയിൽ അവ സൈറ്റോപ്ലാസ്മിക് ലോക്കലൈസേഷൻ കാഴ്ചവെക്കുകയും എന്നാൽ പ്രവർത്തന നിരതമാകുമ്പോൾ അവയിലെ ഫോസ്ഫോറിലേഷന്റെ നിരക്ക് ക്രമാധീതമായി കുറയുകയും പതിയെ അവ ന്യൂക്ലിയർ ലോക്കലൈസേഷൻ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു ലാമിനാർ ഷിയർ സ്ട്രെസ്സ് അനുഭവപ്പെടുമ്പോൾ ഫോസ്ഫോ YAP യുടെ നിരക്ക് സുസ്ഥിരമായി തുടരുന്നതായി ഗവേഷകർ നിരീക്ഷിക്കുകയുണ്ടായി ചുരുക്കിപ്പറഞ്ഞാൽ ഫോസ്ഫോ YAP ടു ടോട്ടൽ YAP യുടെ മൂല്യം കോൺസ്റ്റന്റായിരുന്നു എന്നതാണ് വസ്തുത എന്നാൽ ഓസ്സിലേറ്ററി ഷിയർ സ്ട്രെസ്സ് കണക്കിലെടുക്കുമ്പോൾ ഫോസ്ഫോ YAP ടു ടോട്ടൽ YAP യുടെ മൂല്യം ക്രമേണ താഴുന്നതായി നമുക്ക് ദൃശ്യമാകും എന്നാൽ പ്രസ്തുത സന്ദർഭത്തിൽ ഇതിന് വിപരീതമായി TAZ ന്റെ എക്സ്പ്രെഷൻ പ്രൊഫൈൽ വർദ്ധിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും HUVEC കോശങ്ങളിൽ മാത്രമല്ല മറിച്ച് അയോർട്ടിക് എൻഡോതീലിയൽ കോശങ്ങളിലും പ്രസ്തുത നിരീക്ഷണം അവർ നടത്തുകയുണ്ടായി ഈ കാണുന്നതാണ് അയോർട്ടിക് എൻഡോതീലിയൽ കോശങ്ങൾ എന്നാൽ ഇത് വാസ്ക്ക്യുലർ എൻഡോതീലിയൽ കോശങ്ങളാണ് EC എന്നത് എൻഡോതീലിയൽ സെൽസ് എന്നതിന്റെ ചുരുക്കെഴുത്താണ് മേല്പറഞ്ഞ രണ്ട് സാഹചര്യങ്ങളിലും സമാനമായ പ്രൊഫൈൽ തന്നെയാണ് ഗവേഷകർ നിരീക്ഷിക്കുകയുണ്ടായത് OS മൂലം YAPTAZ ഘടകങ്ങൾ പ്രവർത്തനസജ്ജമാകുകയും അതിലൂടെ അവയുടെ ലോക്കലൈസേഷൻ സിഗ്നേച്ചർ സ്ഥിതീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് പ്രസ്തുത പഠനം വിലയിരുത്തുന്നത് ഗവേഷകർ ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസ്മിക് ഫ്ലൂറസെന്റ് ഇന്റെൻസിറ്റിയുടെ തീവ്രത അളന്ന് തിട്ടപ്പെടുത്തുകയാണ് ചെയ്തത് ലാമിനാർ സ്ട്രെസ്സ് വ്യവസ്ഥിതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നിനെ അപേക്ഷിച്ച് വളരെ താഴ്ന്ന നിരക്കിൽ നിന്നിരുന്ന പ്രസ്തുത പ്രൊഫൈലിൽ മേല്പറഞ്ഞ സാഹചര്യത്തിൽ ഓസ്സിലേറ്ററി സ്ട്രെസ്സ് ഗണ്യമായി വർദ്ധിക്കുകയും ഇതിന്റെ മൂല്യം 3 ലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നതായി നമുക്ക് വ്യക്തമാകും എന്നതാണ് വസ്തുത ചുരുക്കിപ്പറഞ്ഞാൽ ഓസ്സിലേറ്ററി ഷിയർ സ്ട്രെസ്സിന്റെ സാന്നിധ്യത്തിലാണ് YAPTAZ സിഗ്നലിങ് പ്രക്രിയ സജീവമാകുന്നത് എന്ന് സാരം ഇതിന് ശേഷം ഗെയ്ൻ ഓഫ് ഫങ്ഷൻ ലോസ്സ് ഓഫ് ഫങ്ഷൻ എന്നിങ്ങനെ ഉള്ള പരീക്ഷണങ്ങൾ ഗവേഷകർ നടത്തുകയുണ്ടായി മേല്പറഞ്ഞ ലോസ്സ് ഓഫ് ഫങ്ഷൻ പരീക്ഷണത്തിന്റെ ഭാഗമായി YAPTAZ ന്റെ എക്സ്പ്രെഷൻ നിരക്ക് നിർബന്ധപൂർവ്വം ക്ഷയിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും siRNA കൾ ഉടലെടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഗെയ്ൻ ഓഫ് ഫങ്ഷൻ പഠനങ്ങളുടെ ഭാഗമായി YAP എന്ന ഘടകത്തിനെ അവർ ഓവർ എക്സ്പ്രസ് ചെയ്യുകയാണുണ്ടായത് പ്രസ്തുത ഘടകം ഘടനാപരമായി എപ്പോഴും സജീവമായ ഒന്നാണ് മേല്പറഞ്ഞ രണ്ട് സാഹചര്യങ്ങളിലും YAPTAZ സിഗ്നലിങ് പ്രക്രിയയ്ക്ക് നിരോധനം ഏർപ്പെടുത്തുമ്പോൾ എൻഡോത്തീലിയൽ കോശങ്ങളുടെ വർദ്ധനവ് ഗണ്യമായി കുറയുന്നതായി ഗവേഷകർ നിരീക്ഷിക്കുകയുണ്ടായി എന്നാൽ ഇതിന് വിപരീതമായി YAP പ്രവർത്തനരഹിതമാകുമ്പോൾ EC യുടെ വ്യാപനത്തിൽ പ്രകടമായ വർദ്ധനവ് നമുക്ക് ദൃശ്യമാകും അക്ഷരാർത്ഥത്തിൽ YAPTAZ സിഗ്നലിങ് എന്ന പ്രക്രിയ EC യുടെ വ്യാപനത്തെ ക്രമീകരിക്കുന്നുണ്ട് എന്ന സൂചനയാണ് നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത് ഓസ്സിലേറ്ററി ഷിയർ സ്ട്രെസ്സിന്റെ സാന്നിധ്യത്തിലും YAP ഓവർ എക്സ്പ്രെസ്സ്ഡ് ആകുന്ന ലാമിനാർ ഷിയർ സ്ട്രെസ്സ് സാഹചര്യങ്ങളിലും തീർത്തും യാദൃച്ഛികമായി S ഫേസിലുള്ള കോശങ്ങളുടെ ശതമാനത്തിൽ ഗണ്യമായ വർദ്ധനവ് നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് വസ്തുത ലാമിനാർ ഷിയർ സ്ട്രെസ്സിന്റെ സാന്നിധ്യത്തിൽ YAPTAZ സിഗ്നലിങ് പ്രക്രിയ നിർജ്ജീവമാകുന്നു എന്ന നിഗമനത്തിലാണ് ഗവേഷകർ ചെന്നെത്തിയത് എന്നാൽ ഓസ്സിലേറ്ററി സ്ട്രെസ്സിന്റെ സാന്നിധ്യത്തിൽ YAPTAZ സിഗ്നലിങ് സജ്ജീവാകുകയും ഇത് പിന്നീട് എൻഡോത്തീലിയൽ കോശങ്ങളുടെ വർദ്ധനവിന് നിദാനമാകുകയും ചെയ്യുന്നു മാത്രമല്ല മേല്പറഞ്ഞ YAPTAZ ഘടകങ്ങൾക്ക് ഇൻഫ്ലമേഷൻ പരിഹരിക്കുന്നതിൽ ദൃശ്യമാകുന്ന പങ്കിനെ കുറിച്ചും ഗവേഷകർ പരിശോധിക്കുകയുണ്ടായി എൻഡോത്തീലിയൽ കോശങ്ങളിൽ ഓസ്സിലേറ്ററി ഷിയർ സ്ട്രെസിന്റെ സ്വാധീനത്തിൽ VCAM 1 അഥവാ വാസ്ക്യുലർ സെൽ എഡ്ഹെഷൻ മോളിക്ക്യുൾ ICAM 1 എന്നിങ്ങനെ ചില തന്മാത്രകൾ രൂപപ്പെടുകയും അവ പ്രസ്തുത കോശങ്ങളുടെ പ്രതലങ്ങളിലായി THP1 മോണോസൈറ്റുകൾ അധിക തോതിൽ ബന്ധിക്കാനും കാരണമാകുന്നു എന്നാൽ ഇതിന് സമാന്തരമായി siYTYAPTAZ ഉപയോഗപ്പെടുത്തി TYAPTAZ ഘടകത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയാണെങ്കിൽ മേല്പറഞ്ഞ VCAM ICAM എന്നിവയുടെ എക്സ്പ്രെഷനെ അത് ഗണ്യമായി ബാധിക്കുകയും അതിന്റെ പരിണിതഫലമായി എഡ്ഹെഷന്റെ നിരക്കിൽ പ്രകടമായ കുറവ് ദൃശ്യമാകുകയും ചെയ്യുന്നു എന്നതാണ് വസ്തുത ഗണ്യമായ നിരക്കിൽ പ്രവർത്തന നിരതമായ SA YAP ഉപയോഗപ്പെടുത്തുമ്പോൾ തീർത്തും ചലനാത്മകമല്ലാത്ത അവസ്ഥകളിൽ പോലും വർദ്ധിതമായ നിരക്കിൽ ഇൻഫ്ലമേറ്ററി പ്രതികരണങ്ങൾ പ്രകടമാകുന്നതായി നമുക്ക് ദൃശ്യമാകും അക്ഷരാർത്ഥത്തിൽ ലാമിനാർ ഷിയർ സ്ട്രെസ്സ് അനുഭവപ്പെടുന്ന അവസ്ഥകളിൽ പ്രതലങ്ങളിൽ പറ്റിച്ചേർന്ന് നിലകൊള്ളുന്ന മോണോസൈറ്റുകൾക്ക് ആനുപാതികമായ നിരക്കിൽ SA YAP ഓവർ എക്സ്പ്രെസ്സ് ചെയ്യുമ്പോൾ നിയതമായ ഇൻഫ്ലമേറ്ററി പ്രതികരണങ്ങൾ ലഭ്യമാകുന്നതായി ഗവേഷകർ നിരീക്ഷിക്കുകയുണ്ടായി എന്നതാണ് വസ്തുത ചുരുക്കിപ്പറഞ്ഞാൽ മേൽ സൂചിപ്പിച്ച പ്രക്രിയകളെല്ലാം ഇന്റെഗ്രിൻ β2 വിന്റെ എക്സ്പ്രെഷൻ മൂലം സാധ്യമാകുന്ന പ്രവർത്തനങ്ങളാണ് പ്രവർത്തന നിരതമായ THP1 കോശങ്ങളിൽ ഇന്റെഗ്രിൻ β2 എക്സ്പ്രെസ്സ് ചെയ്യുന്നതായി ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി എൻഡോത്തീലിയൽ കോശങ്ങൾക്ക് മേൽ മേല്പറഞ്ഞ THP1 കോശങ്ങൾ ഉയർന്ന നിരക്കിലുള്ള എഡ്ഹെഷൻ പ്രദർശിപ്പിക്കുന്നതിനുള്ള പ്രധാന കാരണവും ഇത് തന്നെയാണ് ഓസ്സിലേറ്ററി സ്ട്രെസ്സിന്റെ പ്രഭാവത്തിൽ സജീവമാകുന്ന YAPTAZ മോണോസൈറ്റ് EC പ്രതിപ്രവർത്തനം വർദ്ധിപ്പിക്കുകയും പിന്നീട് അതിറോസ്ക്ളീറോസിസിന് ആരംഭം കുറിക്കുകയും ചെയ്യുന്നു എന്നവർ കണ്ടെത്തുകയുണ്ടായി ഒടുവിലായി അവർ ഇത്തരമൊരു നിഗമനത്തിലാണ് എത്തിച്ചേർന്നത് ലാമിനാർ ഫ്ലോ ദൃശ്യമാകുന്ന സന്ദർഭങ്ങളിളെല്ലാം YAPTAZ എന്ന ഘടകം സൈറ്റോപ്ലാസ്മിക് ലോക്കലൈസേഷൻ കാഴ്ചവെക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ പരിണിതഫലമായി അതിറോ പ്രൊട്ടക്റ്റീവായ ഒരു സാഹചര്യം ഉടലെടുക്കുന്നതായി നമുക്ക് ദൃശ്യമാകും എന്നാൽ ഇതിന് വിപരീതമായി അസ്വസ്ഥമായ ഒഴുക്കുണ്ടാകുമ്പോൾ YAPTAZ ഫോസ്ഫോറിലേഷൻ ക്രമാധീതമായി താഴുകയും പ്രതികരണാർത്ഥം EC കോശങ്ങളിൽ VCAM ICAM എന്നിവയുടെ ന്യൂക്ലിയർ ലോക്കലൈസേഷൻ അപ്പ് റെഗുലേഷനും ഇന്റെഗ്രിൻ β2 വിന്റെ എക്സ്പ്രെഷനും ദൃശ്യമാകുന്നതായി നമുക്ക് കാണാനാകും എന്നതാണ് വസ്തുത മേല്പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം കോശങ്ങളുടെ വർദ്ധിത നിരക്കിലുള്ള വ്യാപനത്തിലേക്കും പിന്നീട് ഇൻഫ്ലമേഷൻ സിഗ്നലിന്റെ ഉല്പത്തിക്കും നിദാനമാകുന്നു ചുരുക്കിപറഞ്ഞാൽ ലയന സൂചകങ്ങളുടെ പ്രഭാവത്തിൽ നിന്നും മാത്രമല്ല മറിച്ച് മെക്കാനിക്കൽ ഫ്ലോയുടെ സ്വാധീനത്തിലും ഏതെങ്കിലും ഒരു ദിശയിൽ മാത്രം ഒഴുക്ക് തടസ്സപെടുന്ന സോണുകളിലോ അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ്സ് മൂലം അതിറോസ്ക്ളീറോസിസ് പ്ലേക്കുകൾ രൂപപ്പെടുന്ന സാഹചര്യങ്ങളിലോ നമുക്ക് ഇൻഫ്ലമേഷൻ ദൃശ്യമാകുന്ന ഒട്ടനവധി സോണുകൾ കാണാൻ സാധിക്കും എന്നതാണ് വസ്തുത നിങ്ങളുടെ വിലയേറിയ മനഃസാന്നിധ്യത്തിന് നന്ദി